ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഒരു സിസ്റ്റത്തിന്റെ ഘടന അതായത് ആറ്റോമിക് ഘടനയെക്കുറിച്ചും ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഊർജ നിലകളെക്കുറിച്ചും അഥവാ എനർജി ലെവലുകളെ കുറിച്ചും ആയിരുന്നു ഇതോടൊപ്പം തന്നെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അഥവാ ഒരു അപരിമിത പൊട്ടൻഷ്യൽ ഗർത്തത്തിലുള്ള കണം എന്ന ആശയവും നമ്മൾ ചർച്ച ചെയ്തു തുടക്കത്തിൽ നമ്മൾ ബോർ മോഡൽ ഉപയോഗിച്ചാണ് ആറ്റോമിക ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തത് ഇതിൽ നിന്നും നമ്മൾ ക്വാണ്ടം കണ്ടീഷൻ ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കുകയും പിന്നീട് 'ആക്ഷൻ' അഥവാ ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തെ ക്വാണ്ടയിസ് ചെയ്ത് വിൽസൺ സോമർഫെൽഡ് ക്വാണ്ടം കണ്ടീഷനാക്കി സാമാന്യവൽക്കരിക്കയും ചെയ്തു മാത്രമല്ല ആറ്റോമിക ഘടനയും അനുബന്ധ സ്പെക്ട്രവും വിശകലനം ചെയ്യുന്നതിലൂടെ ഇലക്ട്രോൺ സ്പിന്നിനെക്കുറിച്ചും അനുബന്ധ മാഗ്നെറ്റിക് മൊമെന്റ് നെക്കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഒരു നിശ്ചിത ആംഗുലർ മൊമെന്റ്റമുള്ള ഇലക്ട്രോണിന്റെ സ്പിൻ മാഗ്നെറ്റിക് മൊമെന്റ് അതിന്റെ ഓർബിറ്റൽ മാഗ്നെറ്റിക് മൊമെന്റിന്റെ ഇരട്ടിയായിരിക്കുമെന്നുള്ള കാര്യം അവിടെ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നല്ലോ ഇത്രയൊക്കെയാണല്ലോ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞത് ഇതിനു പുറമെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നതും നമ്മൾ പറഞ്ഞുകഴിഞ്ഞു ഒരിക്കലും 2 ഇലക്ട്രോണുകൾക്ക് എല്ലാ ക്വാണ്ടം നമ്പറുകളും തുല്യമായിരിക്കില്ല എന്നതാണ് ഈ സിദ്ധാന്തം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നിലും തന്നെ ഊർജ വികിരണം എങ്ങനെ നടക്കുന്നു എന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത്രയും മാത്രമാണ് ഒരു ഇലക്ട്രോൺ ഉയർന്ന ഊർജനില അഥവാ എനർജി ലെവൽ Eupper ലിൽ നിന്ന് താഴ്ന്ന ഊർജനില Elower ലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ΔE എനർജിയിൽ ഒരു ഫോട്ടോൺ ബഹിർഗമിക്കുന്നു എന്നും ഈ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ΔEh ആയിരിക്കുമെന്നും മാത്രമാണ് നമ്മൾ പറഞ്ഞത് അതായത് ഈ റേഡിയേഷൻ അഥവാ വികിരണം എങ്ങനെ ഉണ്ടാകുന്നുവെന്നും എന്തുകൊണ്ട് ഉണ്ടാകുന്നുവെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇത് ക്ലാസിക്കൽ വികിരണ സിദ്ധാന്തത്തിന് വിരുദ്ധവുമാണ് റേഡിയേഷൻ മെക്കാനിസത്തിന്റെ ക്ലാസിക്കൽ സിദ്ധാന്തം വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ പ്രതിപാദിക്കുന്നത് എന്തെന്നാൽ ചാർജുള്ള കണിക ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ വൈദ്യുതകാന്തിക വികിരണം ബഹിർഗമിക്കുന്നു എന്നാണ് അതിനർത്ഥം ക്ലാസിക്കൽ സിദ്ധാന്തം അനുസരിച്ച് ചാർജുള്ള കണികകൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ വികിരണം ഉണ്ടാകുന്നു എന്നാൽ ക്വാണ്ടം സിദ്ധാന്തമനുസരിച്ച് റേഡിയേഷന്റെ ഉറവിടം വികിരണം സംഭവിക്കുന്നത് എങ്ങനെ എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും വ്യക്തത ഇല്ലായിരുന്നു ആദ്യമായി ഈ ഒരു ദിശയിൽ പഠനം നടത്തിയത് ഐൻസ്റ്റൈൻ ആയിരുന്നു ഇതിന്റെ ഫലമായി ഐൻസ്റ്റൈന്റെ പ്രസിദ്ധമായ ഉത്തേജിത ഉദ്വമന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉരുത്തിരിഞ്ഞു ഇതുതന്നെയാണ് പിൽക്കാലത്ത് ലേസറുകളുടെ വികാസത്തിന് അടിത്തറയായി മാറിയതും അപ്പോൾ അടുത്ത രണ്ടു ക്ലാസുകൾ റേഡിയേഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനും ലേസർ എന്താണെന്ന് വ്യക്തമാക്കാനുമായി ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്ക് ഐൻസ്റ്റൈൻ പറഞ്ഞ ആശയത്തിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ലെവൽ 1 ലെവൽ 2 എന്നിങ്ങനെ രണ്ടു എനർജി ലെവലുകൾ ഉണ്ടെന്നു കരുതാം ഇവയുടെ എനർജി യഥാക്രമം E1 E2 എന്നിരിക്കട്ടെ തത്കാലം നമ്മൾ രണ്ടു എനർജി ലെവലുകൾ മാത്രമാണ് പരിഗണിക്കുന്നത് ഉയർന്ന ഊർജാവസ്ഥ അഥവാ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള എനർജി E2 എന്നും താഴ്ന്ന ഊർജാവസ്ഥ അഥവാ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള എനർജി E1 എന്നുമിരിക്കട്ടെ അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് E2 എനർജി ലെവലിലുള്ള ആറ്റം അല്ലെങ്കിൽ ക്വാണ്ടം സിസ്റ്റം റേഡിയേഷൻ ഉത്സർജിച്ച് E1 ലെവലിലേക്കെത്തുന്നു ഇതാണ് ക്ലാസിക്കൽ തിയറി അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചിത്രം അതായത് ഉത്തേജിത അഥവാ എക്സൈറ്റഡ് അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ഊർജാവസ്ഥയിലുള്ള ആറ്റം ഊർജം വികിരണം ചെയ്ത് താഴ്ന്ന ഊർജാവസ്ഥയിലേക്കെത്തുന്നു ഇത്രയും പറഞ്ഞതിൽ സങ്കീർണതകളൊന്നുമില്ല എന്നാൽ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴ്ന്ന എനർജി ലെവലിലേക്കുള്ള ആറ്റത്തിന്റെ ഈ മാറ്റം എപ്പോഴും പ്രോബബിലിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു പ്രോബബിലിറ്റി എന്ന ആശയം റേഡിയേഷന്റെ കാര്യത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഐൻസ്റ്റൈൻ ആണ് ഇതനുസരിച്ച് ഈ പ്രക്രിയ ക്രമരഹിതം അഥവാ റാൻഡം ആണെന്ന് പറയാം പന്ത്രണ്ടാം ക്ലാസ്സിൽ റേഡിയോ ആക്റ്റിവിറ്റി എന്ന പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ അവിടെ നമ്മൾ പഠിച്ചിരുന്നു ഒരു ന്യൂക്ലിയസ് പ്രോബബിലിസ്റ്റിക് രീതിയിൽ അല്ലെങ്കിൽ ക്രമരഹിതമായാണ് ന്യൂക്ലിയർ ശോഷണത്തിന് വിധേയമാകുന്നതെന്ന് അവിടെ നിങ്ങൾ കണ്ടുകഴിഞ്ഞു ന്യൂക്ലിയർ ശോഷണത്തിന്റെ നിരക്ക് λN ആണെന്ന് അതായത് ഇത് റേഡിയോആക്റ്റിവിറ്റിയുടെ കാര്യത്തിലാണ് റേഡിയോ ആക്റ്റിവിറ്റിയുമായി ഇതിനു ബന്ധമില്ലെങ്കിലും ഇവിടെയും ഐൻസ്റ്റൈൻ പറഞ്ഞത് പ്രകാരം ആറ്റത്തിന്റെ ഊർജനില E1 E2 എന്നിവ എടുത്താൽ ഊർജനില E2 ഉള്ള ഒരു ആറ്റത്തിൽ Δt സമയം കൊണ്ട് A21Δt എന്ന പ്രോബബിലിറ്റിയിൽ ഊർജ വികിരണം സംഭവിക്കും ആറ്റം റേഡിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി A21Δt ആണ് അതായത് E2 എനർജി ലെവലിലുള്ള N2 ആറ്റങ്ങളുണ്ടെങ്കിൽ t ടൈമിൽ ΔN2 N2 A21Δt ആറ്റങ്ങൾ റേഡിയേറ്റ് ചെയ്ത് എനർജി ലെവൽ E1 ലേക്ക് വന്നിട്ടുണ്ടാകാം അതായത് ഇത് ലഭിക്കാനായി N2 വിനെ Δt കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ N2A21 ലഭിച്ചു സമയത്തിനനുസരിച്ച് N2 കുറയുന്നതു കൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത് ഈ പ്രവർത്തനം സ്വയമേവ നടക്കുന്നതാണ് ഇതുമൂലം ഉത്സർജിക്കപ്പെടുന്ന വികിരണത്തെ സ്പോൻന്റെനിയസ് റേഡിയേഷൻ എന്ന് പറയുന്നു ആറ്റത്തിൽ ഇത്തരം ഒരു എനർജി ലെവൽ മാറ്റം സ്വതസിദ്ധമായി ഉണ്ടാകുന്നതാണ് അഥവാ സ്വയമേവ ഉണ്ടായതാണ് അതായത് പ്രേരിതമല്ല എന്നർത്ഥം യൂണിറ്റ് സമയത്തിൽ ആറ്റം നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റിയിൽ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴ്ന്ന എനർജി ലെവലിലേക്ക് മാറുന്നു ഇത്രയുമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഉയർന്ന എനർജി ലെവലിലേക്ക് ഉത്തേജിതമായിട്ടുള്ള അഥവാ എക്സൈറ്റഡ് ആയിട്ടുള്ള എല്ലാ ആറ്റവും ഈ നിരക്കിൽ എനർജി റേഡിയേറ്റ് ചെയ്ത് താഴ്ന്ന ഊർജ്ജനിലയിലേക്കെത്തുന്നു ഇതിന്റെ സംഭാവ്യത നമുക്ക് ഗ്രാഫിക്കൽ ആയി വരച്ചുകാണിക്കാനും പറ്റും നമുക്കറിയാം ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ N20 എന്നത് t 0 ആയപ്പോഴുള്ള N2 അപ്പോൾ ടൈം സീറോ ആയിരിക്കുമ്പോൾ ഉയർന്ന എനർജി ലെവലിൽ മാത്രമാണ് ആറ്റങ്ങൾ ഉള്ളതെങ്കിൽ അഥവാ എല്ലാ അറ്റങ്ങളും ഉയർന്ന എനർജി ലെവലിൽ ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഗ്രാഫിൽ നമുക്ക് ഈ പോയിന്റ് N20 ആയി എടുക്കാം X ആക്സിസിൽ t Y ആക്സിസിൽ N2 എടുത്താൽ നേരത്തെ കാണിച്ച ഇക്വേഷൻ അനുസരിച്ച് N2 എക്സ്പൊനെൻഷ്യലായി കുറയുന്നത് ഗ്രാഫിൽ ഇവിടെ കാണിച്ചതുപോലെ ആയിരിക്കും e A21t നെ പ്രതിനിധീകരിക്കുന്ന ഗ്രാഫ് ആണ് ഇത് ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ചിന്തിച്ചു നോക്കാം നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് എനർജി പമ്പ് ചെയ്തുനോക്കാം ആറ്റത്തിന് എനർജി നൽകുകയാണെങ്കിൽ ആറ്റം ഈ എനർജി ആഗിരണം ചെയ്ത് ഉയർന്ന എനർജി ലെവലിലേക്ക് ഉത്തേജിക്കപ്പെടുന്നു അതായത് E1 ൽ നിന്നും E2 വിലേക്കു ഉയരുന്നു ഐൻസ്റ്റൈൻ പറയുന്നതനുസരിച്ച് ഇവിടെയും ഒരു പ്രോബബിലിസ്റ്റിക് പ്രക്രിയ തന്നെയാണ് നടക്കുന്നത് അതായത് ഇവിടെ ഉയർന്ന ഊർജാവസ്ഥയിലേക്ക് ഉത്തേജിക്കപ്പെടുന്ന ആറ്റങ്ങളുടെ എണ്ണം ΔN1 എന്ന് എടുത്താൽ ഇവിടെ u𝛎 എന്നത് നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള എനർജിയും ഇതിനെ B12 Δt എന്ന കോയിഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ പ്രോബബിലിറ്റിയും ലഭിക്കുന്നു ഇക്വേഷനനുസരിച്ച് ΔN1 എന്നത് u𝛎 B12 Δt വിനു ആനുപാതികമാണ് ഈ ഇക്വേഷൻ നേരത്തെ നമുക്ക് ലഭിച്ച ഇക്വേഷനു സമാനമാണെന്ന് കാണാം uTB12 വിന് A21 ന്റെ അതെ ഡയമെൻഷൻസ് ആണ് ഇവിടെ u𝛎 എന്നത് ടെമ്പറേച്ചർ T യിൽ സ്ഥിതിചെയ്യുന്ന ആറ്റത്തിന്റെ h എന്ന ഫ്രീക്വൻസിയിലുള്ള സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ആണ് അപ്പോൾ ടെമ്പറേച്ചർ T ആയിരിക്കുമ്പോൾ ആറ്റത്തിന് ഒരു നിശ്ചിത എനർജി ഡെൻസിറ്റി ലഭിക്കുന്നത് കാരണം അവ ഉയർന്ന എനർജി ലെവലിലേക്ക് ഉത്തേജിക്കപ്പെടുന്നു ഇക്വേഷൻ ഡിഫറെൻഷ്യൽ രീതിയിൽ എഴുതുകയാണെങ്കിൽ uTB12 വിന് A യുടെ അതെ ഡയമെൻഷൻ തന്നെ ആണെന്നുള്ളത് ഇവിടെ വ്യക്തമാണല്ലോ കാരണം dN2dt എന്നത് AN2ആണല്ലോ ഇവ രണ്ടും മാത്രമാണ് സാധാരണയായി നടക്കുന്ന പ്രക്രിയകളെങ്കിൽ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നു അതെന്താണെന്നു നോക്കാം അതിനു മുൻപായി നമുക്ക് ഇതിവിടെ കുറിച്ച് വെക്കാം സ്പൊൻന്റെനിയസ് എമിഷൻ എനർജി ഇൻഡ്യൂസ്ഡ് എക്സൈറ്റേഷൻ ഇവ മാത്രമാണ് വികിരണ രൂപത്തിലുള്ള ഊർജകൈമാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയകളെങ്കിൽ സ്വാഭാവികമായും മറ്റു ചില പ്രശ്നങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതായി വരും എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം നമുക്ക് വീണ്ടും എനർജി ലെവൽ E2 E1 ഇവ എടുക്കാം E1 ലെവലിൽ N1 ആറ്റം E2 ലെവലിൽ N2 ആറ്റം എനർജി ആഗിരണം ചെയ്ത് E1 ലെവലിൽ നിന്നും ആറ്റം ഉയർന്ന എനർജി ലെവൽ ആയ E2 ലെവലിൽ എത്തുന്നു അതുപോലെ ഉയർന്ന എനർജിയുള്ള E2 ലെവലിൽ നിന്നും എനർജി റേഡിയേറ്റ് ചെയ്ത് താഴ്ന്ന എനർജി ലെവൽ ആയ E1 ലേക്ക് പതിക്കുന്നു അതിനാൽ മുകളിലെ തലത്തിലുള്ള അതായത് E2 ലെവലിൽ ആറ്റങ്ങളുടെ എണ്ണം കുറയുന്ന നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇത് A21N2 ന് തുല്യമായിരിക്കും അതേ സമയം താഴെയുള്ള ഊർജതലത്തിൽ E1 ലെവലിൽ അതായത് സ്വാഭാവിക അവസ്ഥയിൽ അഥവാ ഗ്രൌണ്ട് സ്റ്റേറ്റിൽ നിന്നും ഉത്തേജിക്കപ്പെട്ട് ആറ്റങ്ങൾ മുകളിലേക്കെത്തുന്നതിനാൽ E2 ലെവൽ uTN1B12 ആറ്റങ്ങളെ നേടുന്നുമുണ്ട് അപ്പോൾ dN2dt A21N2 uTN1B12 ആയിരിക്കും അതേപോലെ dN1dt dN2dt A21N2 uTN1B12 ആയിരിക്കും കാരണം E1 ലെവലിൽ നിന്നും ആറ്റം ഉത്തേജിക്കപ്പെട്ട് മുകളിലേക്ക് പോകുന്നത് കാരണം N1 കുറയുകയും ഉത്തേജിതാവസ്ഥയിലുള്ള ആറ്റം എനർജി റേഡിയേറ്റ് ചെയ്ത് താഴേക്കു പതിക്കുന്നത് കാരണം N1 കൂടുകയും ചെയ്യുന്നു സന്തുലിതാവസ്ഥയിൽ താപനില T ആയിരിക്കുമ്പോൾ ഈ ആറ്റങ്ങളെല്ലാം അടങ്ങിയ ഒരു ബോക്സ് ഉണ്ടെന്നു വിചാരിക്കാം അതിൽ സന്തുലിതാവസ്ഥയിൽ T താപനിലയിലുള്ള സമയത്തിനനുസരിച്ച് മാറ്റം വരാത്ത ഉണ്ട് അതിനർത്ഥം സന്തുലിതാവസ്ഥയിൽ ആയതിനാൽ dN2dt dN1dt 0 ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് A21N2 uTN1B120 അപ്പോൾ സന്തുലിതാവസ്ഥയിൽ അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ A21N2 uTN1B120 അതായത് ഇവിടെ ടെമ്പറേച്ചർ T → ∞ എന്ന കണ്ടീഷൻ ആകുന്നെന്നു വിചാരിക്കുക അതായത് T വളരെ കൂടുതൽ ആകുന്നെന്നു കരുതുക നിങ്ങൾക്കറിയാം uT എന്നത് T4 ന് ആനുപാതികമാണെന്ന് അപ്പോൾ uT → ∞ ഇതിനർത്ഥം എന്താണെന്ന് നോക്കൂ N2N1 വളരെ കൂടുതലാകുന്നു അതായത് N1 ക്കാൾ N2 വളരെ വളരെ കൂടുതലാണ് എന്ന് വരുന്നു മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ഉയർന്ന എനർജി ലെവലിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെന്നർത്ഥം പക്ഷെ നിങ്ങൾക്കറിയാം തെർമോഡയനാമിക്സ് അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ബോൾട്സ്മാൻ ഇക്വേഷൻ അനുസരിച്ച് ഈ ഇക്വേഷനിൽ T → ∞ ലേക്ക് പോകാൻ അനുവദിക്കയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം T → ∞ ആകുമ്പോൾ N2 → N1 അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് ഉയർന്ന എനർജി ലെവലിലുള്ള ആറ്റത്തിന്റെ എണ്ണം ഗ്രൌണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന്റെ എണ്ണത്തിന് തുല്യമാകുന്നു എന്ന് കാണാം അതായത് രണ്ടു ലെവെലിലും ആകെയുള്ള ആറ്റത്തിന്റെ പകുതി വീതം തുല്യമായി വിതരണം ചെയ്യപ്പടുന്നതായി കാണാം എന്നാൽ നേരത്തെ കിട്ടിയ റിസൾട്ട് അനുസരിച്ച് ടെമ്പറേച്ചർ വളരെ കൂടുമ്പോൾ കൂടുതൽ ആറ്റം ഉയർന്ന എനർജി ലെവലിൽ ആയിരിക്കുമെന്നായിരുന്നു അപ്പോൾ രണ്ടു റിസൾട്ടും പരസ്പര വിരുദ്ധമായാണ് വന്നിരിക്കുന്നത്

ഈ വൈരുദ്ധ്യം എങ്ങനെ മറികടക്കാമെന്നു നോക്കാം ഇതിനായി ഉത്തേജിത ഉദ്വമനം അഥവാ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ആശയം കൊണ്ടുവന്നു ഇതിന്റെ അർത്ഥം എന്താണ് റേഡിയേഷൻ കൂടുതൽ കൂടുതൽ ആയിത്തീർന്നാൽ അത് ഉത്തേജിതാവസ്ഥയിൽ നിന്നും ഗ്രൌണ്ട് സ്റ്റേറ്റിലേക്ക് പതിക്കാൻ ആറ്റങ്ങളെ ഉത്തേജിപ്പിക്കും ഇവിടെ E2 E1 ലെവലുകളിൽ ആറ്റങ്ങൾ ഉണ്ടെന്നു കരുതുക E2 ലെവലിൽ N2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് dN2dt A21N2 ആയിരിക്കുമല്ലോ ഇതിനുപുറമെ നമ്മൾ പറയാൻ പോകുന്നത് uT സ്പെക്ട്രൽ ഡെൻസിറ്റി ഉള്ള റേഡിയേഷന്റെ സാന്നിദ്ധ്യം കൂടുതൽ ആറ്റങ്ങളെ മുകളിലെ എനർജി ലെവലിൽ നിന്നും താഴത്തെ എനർജി ലെവലിലേക്ക് പതിക്കാൻ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് അതായത് അങ്ങനെ റേഡിയേഷന്റെ സാനിദ്ധ്യം കൂടുതൽ കൂടുതൽ ആറ്റങ്ങളെ ഗ്രൌണ്ട് സ്റ്റേറ്റിലേക്ക് പതിക്കാൻ ഉത്തേജിപ്പിക്കുന്നു ഈ പ്രക്രിയയെയാണ് ഉത്തേജിത ഉദ്വമനം അഥവാ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് താപനില ഉയരുമ്പോൾ എന്തുസംഭവിക്കും uT കൂടി കൂടി വരുന്നു അപ്പോൾ ഗ്രൌണ്ട് സ്റ്റേറ്റിൽ അഥവാ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും ഉത്തേജിതനിലകളിലേക്ക് അഥവാ എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുന്ന ആറ്റങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു മാത്രാമല്ല ഇതിനോട് ആനുപാതികമായി എക്സൈറ്റഡ് ലെവലിൽ നിന്നും ഗ്രൌണ്ട് ലെവലിലേക്ക് പോകുന്ന ആറ്റങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു അങ്ങനെ സന്തുലിതാവസ്ഥയിലേക്കെത്തുന്നു അപ്പോൾ dN2dt എന്നത് സ്പോൻടെനിയസ് എമിഷൻ കാരണമുള്ള A21N2 സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണമുള്ള uTN2 B21 പിന്നെ ഗ്രൌണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിൽ നിന്നും മുകളിലേക്ക് ഉത്തേജിതമാക്കപ്പെടുന്നത് കാരണമുള്ള uTN1B12 ഇവ ചേർന്നതായിരിക്കും അതായത് അതുപോലെ അങ്ങനെ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ആശയം കൊണ്ടുവന്നു ഈ ആശയം ശരിയായ സന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും സന്തുലിതാവസ്ഥയിൽ dN2dt dN1dt 0 എന്ന കണ്ടീഷൻ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇക്വിലിബ്രിയം കണ്ടിഷൻ ഇവിടെ പ്രയോഗിക്കുമ്പോൾ അതായത് ഇവിടെ താപനില വളരെ അധികം വർധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെയും ടെമ്പറേച്ചർ T → ∞ എന്ന കണ്ടീഷൻ ആകുന്നെന്നു വിചാരിക്കുക അപ്പോൾ uT → ∞ അതുകൊണ്ട് N2 N1 എന്നത് നമുക്ക് B12uTB21uT എന്ന് അപ്പ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം അതായത് B21 B12 എന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണല്ലോ ഇവിടെ ഒരു കാര്യം മനസിലാക്കാവുന്നത് T → ∞ ആകുമ്പോൾ N2 N1→ 1 അതുകൊണ്ട് B21 B12 1 അതായത് B21 B12 അതിനാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ആശയം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ശരിവെക്കുന്നു എന്ന് മാത്രമല്ല ഇത് സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായകമായ ഒരു പുതിയ പ്രക്രിയയായി നിലനിൽക്കയും ചെയ്യുന്നു എക്സൈറ്റഡ് സ്റ്റേറ്റ് അഥവാ ഉത്തേജിത അവസ്ഥയിലോ ഗ്രൌണ്ട് സ്റ്റേറ്റ് അഥവാ സ്വാഭാവിക അവസ്ഥയിലോ ഉള്ള ആറ്റങ്ങളിൽ പതിക്കുന്ന വികിരണം താഴ്ന്ന ഊർജ അവസ്ഥയിൽ ഉള്ള ആറ്റങ്ങളെ ഉയർന്ന ഊർജ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല ഉത്തേജിത അവസ്ഥയിലുള്ള ആറ്റങ്ങളെ താഴേക്ക് പതിപ്പിക്കാനും കാരണമാകുന്നു ഇവിടെയാണ് ഉത്തേജിത ഉദ്വമനം അഥവാ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ആശയം ഉടലെടുക്കുന്നത് അതായത് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ ഉത്തേജിത അവസ്ഥയിലുള്ള ആറ്റങ്ങളെ താഴേക്ക് പതിക്കാൻ പ്രേരണ നൽകുന്നു ഇനി നമുക്ക് ഇതിനെകുറിച്ച് കൂടുതലായി പഠിക്കാം ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് B21 B12 എന്നതും കൂടുതലായി പരിഗണയിൽ എടുക്കേണ്ടതുണ്ട് നമുക്ക് നേരത്തെ ലഭിച്ച ഇക്വേഷൻ അനുസരിച്ച് ബോൾട്സ്മാൻ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം ആയിരിക്കുമെന്ന് ഇവിടെ kB എന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് ഇതിൽ നിന്നും ഇതിൽ uT പദങ്ങൾ ഒരേ വശത്തേക്ക് കൊണ്ടുവന്നാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്പോൻടെനിയസ് എമിഷൻ ഇവയുടെ കോയെഫിഷ്യന്റ് uT കാണാനുള്ള ഫോർമുലയിൽ വന്നിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക uT കാണാനുള്ള പ്ലാങ്ക് ഫോർമുല Planck's formula അനുസരിച്ച് ഇതും നമുക്ക് ഒരു ബോക്സ് വരച്ച് മാർക്ക് ചെയ്യാം ഇനി നോക്കൂ നമുക്ക് കിട്ടിയ രണ്ടു ഇക്വേഷനുകളും താരതമ്യം ചെയ്തു നോക്കൂ ആറ്റവും റേഡിയേഷനും തമ്മിലുള്ള പ്രതിപ്രവർത്തനം അഥവാ ഇൻറ്ററാക്ഷൻ അനുസരിച്ച് പ്ലാങ്ക് ഫോർമുല Planck's formula അനുസരിച്ച് ഇതിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസിലാക്കാം ആണെന്നും B12 B21 ആണെന്നും h𝞶 ΔE ആണെന്നും ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്പോൻടെനിയസ് എമിഷൻ എന്നിവ എന്തെന്ന് മനസിലാക്കിയതോടൊപ്പം എമിഷൻ സ്പെക്ട്രത്തിന്റെയും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെയും എനർജി കാണാനായി നീൽസ് ബോർ കണ്ടെത്തിയ E h𝞶 എന്ന കണ്ടീഷനും ലഭിച്ചിരിക്കുന്നു ആറ്റത്തിൽ നിന്നും ഉത്സർജിക്കപ്പെടുന്ന വികിരണം അഥവാ റേഡിയേഷൻ v Eh എന്ന ഫ്രീക്വൻസിയിൽ അഥവാ ആവൃത്തിയിൽ ആയിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു റേഡിയേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നപഠനത്തിലെ ഒരു വലിയ മുന്നേറ്റമായി നമുക്കിതിനെ കാണാം ഇതിനോടൊപ്പം ഐൻസ്റ്റൈൻ റേഡിയേഷന്റെ പ്രോബബിലിസ്റ്റിക് സ്വാഭാവത്തെകുറിച്ചുള്ള ആശയങ്ങളും കൂടി ചേർത്തുവെച്ചു ക്ലാസിക്കൽ വൈദ്യുത കാന്തിക സിദ്ധാന്തമനുസരിച്ച് ത്വരണം അഥവാ ആക്സിലറേഷന് വിധേയമാകുന്ന ചാർജുള്ള ഒരു കണം തുടർച്ചയായി വൈദ്യുത കാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ ഉത്സർജിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ ഉത്തേജിത അവസ്ഥയിലുള്ള കണികാ സ്വഭാവം അല്ലെങ്കിൽ ക്വാണ്ടം സ്വഭാവമുള്ള ഇലക്ട്രോൺ എപ്പോഴും ഗ്രൌണ്ട് സ്റ്റേറ്റ് അഥവാ സ്വാഭാവിക നിലയിലേക്ക് പതിക്കാനുള്ള പൂജ്യം അല്ലാത്ത സാധ്യത അഥവാ പ്രോബബിലിറ്റി കാണിച്ചുകൊണ്ടേയിരിക്കും അതായത് ആറ്റത്തിന് ഇങ്ങനെ ഗ്രൌണ്ട് സ്റ്റേറ്റിലേക്ക് പതിക്കാനുള്ള പൂജ്യം അല്ലാത്ത പ്രോബബിലിറ്റി ഉണ്ട് ഇത് എപ്പോഴും പ്രോബബിലിറ്റിയെ ആശ്രയിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രക്രിയയാണ് ഇതിനെകുറിച്ച് നമുക്ക് കൂടുതലായി വിശകലനം ചെയ്തു നോക്കാം നിങ്ങളിപ്പോൾ സ്പോൻടെനിയസ് എമിഷൻ അതിനോടനുബന്ധിച്ചുള്ള കോയെഫിഷ്യന്റ് A21 സ്റ്റിമുലേറ്റഡ് എമിഷൻ അതിനോടനുബന്ധിച്ചുള്ള കോയെഫിഷ്യന്റ് B21 B12 ഇവ എന്താണെന്നും വിവിധ ഊർജ നിലകൾ തമ്മിലുള്ള ഊർജ വ്യത്യാസം റേഡിയേഷന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും മനസിലാക്കി കഴിഞ്ഞല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് ഉത്തേജിത അവസ്ഥയിൽ നിന്നും dN2 dt A21N2 എന്ന നിരക്കിൽ ആറ്റം ഗ്രൌണ്ട് സ്റ്റേറ്റിലേക്ക് പതിക്കുന്നു ആറ്റം ഇങ്ങനെ ഉയർന്ന ഊർജ്ജനിലയിൽ നിന്നും താഴ്ന്ന ഊർജ്ജനിലയിലേക്ക് പതിക്കുമ്പോൾ ഫോട്ടോണുകൾ ഉത്സർജിക്കപ്പെടുന്നു ഇവിടെ നമുക്ക് രണ്ടു പ്രധാനപ്പെട്ട വസ്തുതകൾ മനസിലാക്കാം റേഡിയേഷന്റെ ഇന്റെൻസിറ്റി അഥവാ തീവ്രത A21 കോയെഫിഷ്യന്റിനെ ആശ്രയിച്ചിരിക്കുന്നു A21 കൂടുതലാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആറ്റങ്ങൾ ഉത്തേജിത അവസ്ഥയിൽ നിന്നും സ്വാഭാവിക നിലയിലേക്ക് വരികയും കൂടുതൽ ഫോട്ടോണുകൾ ഉത്സർജിക്കപ്പെട്ട് റേഡിയേഷന്റെ തീവ്രത കൂടുകയും ചെയ്യുന്നു A21 കുറവാണെങ്കിൽ ഇന്റെൻസിറ്റിയും കുറവായിരിക്കും എക്സൈറ്റഡ് ലെവെലിന്റെ അഥവാ ഉത്തേജിത അവസ്ഥയുടെ ആയുസ് അഥവാ ലൈഫ് ടൈം A21 മായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെങ്ങനെ എന്ന് നോക്കാം ഉയർന്ന എനർജി ലെവലിൽ തുടക്കം ധാരാളം ആറ്റങ്ങൾ ഉദാഹരണമായി N2 ആറ്റങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ ഇവ തുടക്കത്തിൽ വളരെ കൂടുതൽ ഇന്റെൻസിറ്റിയിൽ റേഡിയേഷൻ ഉത്സർജിക്കയും ക്രമേണ ഇത് എക്സ്പൊനെൻഷ്യൽ രീതിയിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നു ഒരു ആറ്റം മാത്രമെടുത്താൽ ശോഷണം നടക്കാനുള്ള സാധ്യത പ്രതി സെക്കൻഡിൽ 1 ആയിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ റേഡിയേഷന്റെ ഇന്റർസിറ്റി ക്രമേണ കുറയുന്നതിനാൽ ആംപ്ലിട്യൂഡ് തുടക്കം വളരെ കൂടുതലും പിന്നീട് സാവധാനം കുറയുന്നതായും കാണാം ഇവിടെ ചുവപ്പു നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ കെർവ് e A21t എന്ന രൂപത്തിലാണെന്നു കാണാം ഇത് നമുക്ക് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററുമായി ബന്ധപ്പെടുത്തി നോക്കാം റേഡിയേഷൻ ഉത്സർജിക്കപ്പെടുന്നത് ഒരു ഓസിലേറ്ററിൽ നിന്നും ഉദാഹരണമായി മുന്നോട്ടും പിന്നോട്ടും ആന്ദോളനം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൽ നിന്നുമാണെന്ന് കരുതുക ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി കുറയുകയും അതോടൊപ്പം ഓസിലേഷന്റെ ആംപ്ലിട്യൂഡ് കുറയുകയും ചെയ്യുന്നു ഫ്യൂറിയർ സിദ്ധാന്തത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇതുപോലുള്ള ഒരു പ്രൊഫൈൽ ഉള്ളപ്പോഴെല്ലാം ഹാർമോണിക് ഓസിലേറ്ററിന് പ്രധാന ആവൃത്തി അതായത് 𝞈0 വിന് അടുത്തുള്ള ആവൃത്തികൾക്ക് അനുബന്ധ ആംപ്ലിറ്റ്യൂഡ് നോൺസീറോ ആയിരിക്കുമെന്ന് നിങ്ങൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന ഭാഗം ഒന്നുകൂടെ വായിച്ചുനോക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ 𝞈0 തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് യുമായി 𝞈02𝜋 c𝝀 എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ 𝞈0 യുടെ അടുത്തുവരുന്ന ഫ്രീക്വൻസികൾക്ക് ആംപ്ലിട്യൂഡ് നോൺസീറോ ആയിരിക്കും അതുകൊണ്ടുതന്നെ 𝞈0 എന്ന ഫ്രീക്വൻസിയുടെ രണ്ടുവശത്തേക്കും ഗ്രാഫ് വ്യാപിച്ചിരിക്കുന്നതായി കാണാം 𝞈0 വിന്റെ താഴെയും മുകളിലും റേഡിയേഷന്റെ തീവ്രത ഇതുപോലെ കുറയുന്നതിനാൽ ഓസിലേറ്ററിന്റെ അതായത് എക്സൈറ്റഡ് നിലയിലുള്ള ആറ്റത്തിന്റെ ലൈഫ് ടൈമും കുറയുന്നു ഇവിടെ ലൈഫ് ടൈം 1 A അല്ലെങ്കിൽ 1 γ ആയിരിക്കും എന്നത് ഡാപിംഗ് കോയെഫിഷ്യന്റ് ആണ് ഇവിടെ e A21t എന്നതിനെ e tτ എന്നെഴുതുകയാണെങ്കിൽ 1 A21 ആണ് ലൈഫ് ടൈം നേരത്ത വരച്ച റേഡിയേഷൻ പ്രൊഫൈൽ ഒന്നുകൂടെ വരക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്റെൻസിറ്റി ഏറ്റവും കൂടുതൽ അഥവാ മാക്സിമം ഇന്റെൻസിറ്റി അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിട്യൂഡ് വരുന്നത് 𝞈0 വിൽ ആണെന്ന് എന്നാൽ ഇവിടെ അത് അല്പം വീതിയിൽ വ്യാപിച്ചിരിക്കുന്നതായി കാണാം ഈ വ്യാപനം A21 മായി അഥവാ ശോഷണത്തിന്റെ കോയെഫിഷ്യന്റ് അഥവാ ഡീകേ കോയെഫിഷ്യന്റ് മായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ 𝞈0 വിന്റെ രണ്ടുവശത്തേക്കുമുള്ള വ്യാപനം അളന്നാൽ A21 കാണാവുന്നതാണ് ഇത് ലൈഫ് ടൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ലൈഫ് ടൈം കണ്ടുപിടിച്ചാൽ A21 ലഭിക്കുന്നതാണ് നമുക്ക് ഇത് വിശകലനം ചെയ്തു നോക്കാം അപ്പോൾ നമ്മളിവിടെ ആറ്റത്തിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഡാംപ്ട് ഹാർമോണിക് ഓസിലേറ്റർ ആയി പരിഗണിക്കുന്നു ഇങ്ങനെ ഒരു ആറ്റം റേഡിയേറ്റ് ചെയ്ത് ഗ്രൌണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ശോഷണ സ്ഥിരാങ്കം അഥവാ ഡീകെ കോൺസ്റ്റന്റ് A21 ആയിരിക്കും എക്സൈറ്റഡ് അവസ്ഥയിലെ ലൈഫ് ടൈം 1A21 ആയിരിക്കും ഇന്റെൻസിറ്റി ഫ്രീക്വൻസി ഗ്രാഫിന്റെ വ്യാപനം അളന്നാൽ A21 ലഭിക്കുന്നതാണ് അതിനാൽ നമുക്ക് ഗ്രാഫിൽ നിന്നും A21 കണ്ടുപിടിക്കാവുന്നതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈം 𝞃 ഏകദേശം 10 8 10 9 എന്ന തോതിലാണ് വരുന്നത് അതിനർത്ഥം എക്സൈറ്റഡ് ലെവലും ഗ്രൌണ്ട് സ്റ്റേറ്റും തമ്മിൽ വരുന്ന ശോഷണ സ്ഥിരാങ്കം അഥവാ ഡീകെ കോൺസ്റ്റന്റ് A എന്നത് 108 109 എന്ന തോതിലായിരിക്കും

കോയെഫിഷ്യന്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം A21 8πh3c3 B21 ആയതുകൊണ്ട് B21 A213 ആയിരിക്കും എന്നതാണ് അതായത് ഉയർന്ന ഫ്രീക്വൻസിയിൽ B21 ചെറുതായിരിക്കും അതായത് ഒരു നിശ്ചിത A21 ന് ഉയർന്ന ഫ്രീക്വൻസിയിൽ ഉള്ള B21 താഴ്ന്ന ഫ്രീക്വൻസിയിൽ ഉള്ള B21 നേക്കാൾ കുറവായിരിക്കും അതിനർത്ഥം ഉയർന്ന ഫ്രീക്വൻസിയിൽ സിസ്റ്റത്തിൽ പ്രകാശം പതിപ്പിച്ചാലും സ്പൊന്റെനിയസ് എമിഷൻ ആയിരിക്കും ആധിപത്യം സ്ഥാപിക്കുന്നത് നമുക്കിനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിച്ച് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ആറ്റവും റേഡിയേഷനും തമ്മിലുള്ള പ്രതിപ്രവർത്തനം അഥവാ ഇന്ററാക്ഷൻ നിയന്ത്രിക്കുന്നത് പ്രോബബിലിറ്റി അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ നിയമങ്ങളാണ് സ്പൊന്റെനിയസ് എമിഷൻ നടക്കുന്നതോടൊപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂടി നടക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ പ്രകാശം പതിപ്പിക്കുന്നതിലൂടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിനെ അഥവാ ഉയർന്ന ഊർജ അവസ്ഥയിലുള്ള ആറ്റത്തിനെ റേഡിയേറ്റ് ചെയ്യാൻ ഉത്തേജിപ്പിക്കാൻ സാധിക്കും അതായത് ആറ്റം അല്ലെങ്കിൽ ഒരു ക്വാണ്ടം സിസ്റ്റം റേഡിയേഷൻ ആഗിരണം ചെയ്യുക മാത്രമല്ല റേഡിയേഷന്റെ സാന്നിധ്യം സിസ്റ്റത്തിനെ കൂടുതൽ റേഡിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കകൂടി ചെയ്യുന്നു അതായത് റേഡിയേഷൻ ആറ്റത്തിനെ ഉത്തേജിപ്പിച്ച് കൂടുതൽ റേഡിയേറ്റ് ചെയ്യിപ്പിക്കുന്നു ഇതാണ് ലേസറിന്റെ അടിസ്ഥാന തത്വം ഇത് അടുത്ത ക്ലാസിൽ തുടരാം